സിംപിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ അസ്സസ്മെന്റ് R ഉപയോഗിച്ച് സിംപിൾ ലീനിയർ റിഗ്രെഷൻ ഇമ്പ്ലിമെൻറ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള മൂന്നാമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലെക്ച്ചറിൽ മോഡൽ മൂല്യനിർണ്ണയത്തിന്റെ ആദ്യ തലം നമ്മൾ പരിശോധിച്ചു നമ്മൾ നിർമ്മിച്ച ഒരു ലീനിയർ മോഡൽ എത്ര നല്ലതാണെന്ന് നോക്കുന്നത് നമ്മൾ കണ്ടു ലീനിയർ മോഡലിലെ ഗുണകങ്ങൾ സിഗ്നിഫിക്കന്റ് കോയിഫിഷ്യന്റ്കൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമ്മൾ കണ്ടു ഈ ലെക്ച്ചറിൽ നമ്മൾ മോഡൽ മൂല്യനിർണ്ണയത്തിന്റെ രണ്ടാം തലത്തിലേക്ക് നോക്കാൻ പോകുന്നു ഇതിന്റെ ഭാഗമായി നമ്മൾ കാണാൻ പോകുന്നത് ലീനിയർ മോഡലിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെങ്കിൽ മോശം അളവുകളും മോശം അളവുകളും നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ നമ്മൾ അർത്ഥമാക്കുന്നത് ഔട്ട്ലറുകൾ എന്നാണ് അതിനാൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഔട്ട്ലറുകൾ ഔട്ട്ലയറുകൾ പോയിന്റുകളാണ് അത് ഡാറ്റയുടെ ഭൂരിഭാഗവും പൊരുത്തപ്പെടുന്നില്ല 5 ശതമാനം സിഗ്നിഫിക്കൻസ് ലെവലിൽ അനുബന്ധ സ്റ്റാൻഡേർഡ് റെസിജ്വൽ 2 2 എന്നിവക്ക് പുറത്ത് വീണാൽ ഒരു പോയിന്റ് ഔട്ട്ലൈയറായി കണക്കാക്കപ്പെടുന്നു ഇനി ഈ ഔട്ട്ലൈയറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം നമുക്ക്കോൺഫിഡൻസ് ഇന്റെർവെല്ലിന് പുറത്ത് നിരവധി ഔട്ട്ലറുകൾ ഉണ്ടെങ്കിലും ഓരോ ആവർത്തനത്തിലും നമ്മൾ ഒരു സമയത്ത് ഒന്ന് മാത്രം തിരിച്ചറിയാൻ പോകുന്നു അങ്ങനെ ചെയ്തതിന് ശേഷം റെഡ്യൂസ്ഡ് സാമ്പിളിൽ നമ്മൾ ഒരു ലീനിയർ മോഡൽ പ്രയോഗിക്കാൻ പോകുന്നു കൂടുതൽ ഔട്ട്ലറുകൾ കണ്ടെത്തുന്നതുവരെ നമ്മൾ ആവർത്തിക്കാൻ പോകുന്നു ഇനി ഈ ഔട്ട്ലറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം റെസിജ്വൽ അനാലിസിസിൽ നിന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഇടതുവശത്ത് ഒരു പ്ലോട്ട് ഫംഗ്ഷൻ കാണാം ഇപ്പോൾ റെസിജ്വൽ പ്ലോട്ടിനായി x അക്ഷത്തിൽ ഫിറ്റ് ചെയ്ത മൂല്യങ്ങളും നമ്മൾ നിർമ്മിച്ച മോഡലിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് റെസിജ്വലും പ്ലോട്ട് ചെയ്യാൻ പോകുന്നു ഇപ്പോൾ നമ്മൾ ബോണ്ട്സ്മോഡ് എന്ന ഒരു ലീനിയർ മോഡൽ നിർമ്മിച്ചു അതിനുള്ള സ്റ്റാൻഡേർഡ് റെസിജ്വലുകൾ നമ്മൾ കണക്കാക്കാൻ പോകുന്നു അത് എന്റെ y ആയി മാറുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൈറ്റിലും നൽകുന്നു ഈ പ്ലോട്ടിന്റെ ടൈറ്റിൽ റെസിജ്വൽ പ്ലോട്ട് എന്നാണ് എന്റെ x ലേബൽ ഒന്നുമല്ല മറിച്ച് ബിഡ് വിലയുടെ പ്രവചിച്ച മൂല്യങ്ങളാണ് അതുപോലെ എന്റെ y ലേബൽ സ്റ്റാൻഡേർഡ് റെസിജ്വൽ ആണ് ഇപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക്കോൺഫിഡൻസ് ഇന്റെർവെൽ സജ്ജമാക്കേണ്ടതുണ്ട് അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ വീണ്ടും അതേ കമാൻഡ് ab ലൈൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ പ്ലോട്ടിലേക്ക് ലീനിയർ മോഡൽ ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചത് ab ലൈൻ ആണ് അതേ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക്കോൺഫിഡൻസ് ഇന്റെർവെൽലും നൽകാം ഇപ്പോൾ ഞാൻ ഉയരം സജ്ജമാക്കാൻ പോകുന്നു ഇവിടെ h2 ആയും ലൈൻ ടൈപ്പ് 2 ആയും ഉയരം എന്നത് ലൈൻ വരയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയരമാണ് കൂടാതെ ലൈൻ ടൈപ്പ് എന്നത് നിങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ലൈൻ എങ്ങനെയുള്ളതാണെന്നതാണ് നിങ്ങൾക്ക് ഡാഷ് ചെയ്ത ലൈനുകൾ സോളിഡ് ലൈൻ ഡാഷ് ഡോട്ട് എന്നിവ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അവിടെ സമാനമായ നിരവധി ഓപ്ഷനുകൾ ഉണ്ട് എനിക്ക് ലോവർ കോൺഫിഡൻസ് ഇന്റർവെൽലും ആവശ്യമാണ് അതിനാൽ ഞാൻ അത് 2 ആയി സജ്ജീകരിക്കുന്നു അതേ പരിധിക്ക് ഞാൻ ലൈൻ ടൈപ്പ് 2 ആയി സജ്ജീകരിക്കുന്നു ഇനി പ്ലോട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം വലതുവശത്ത് എനിക്ക് പ്ലോട്ട് ഉണ്ട് കോൺഫിഡൻസ് ലെവൽ നിർവചിക്കുന്ന 2 എന്നിവയിൽ വരച്ച രണ്ട് വരകൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ y അക്ഷത്തിൽ എനിക്ക് സ്റ്റാൻഡേർഡ് റെസിജ്വലുകളും x അക്ഷത്തിൽ ബിഡ് വിലയ്ക്കുള്ള മൂല്യങ്ങളും ഞാൻ പ്രവചിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്ലോട്ടിൽ നിന്ന് രണ്ട് ഔട്ട്ലൈയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അവ ശരിക്കും അകലെയാണ് ഒന്ന് ഉണ്ട് അത് ഉയർന്ന കോൺഫിഡൻസ് ഇന്റർവെൽക്ക് അടുത്താണ് അതിലൊന്നുണ്ട് അത് ലോവർ കോൺഫിഡൻസ് ഇന്റർവെൽക്ക് ഏതാണ്ട് അടുത്താണ് ഇവ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം പ്ലോട്ടിൽ നിന്ന് ഇവ ഏതൊക്കെ പോയിന്റാണെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞേക്കില്ല പോയിന്റുകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് റോ ഐഡികളിലാണ് ഈ സാമ്പിളുകളുടെ സൂചികകൾ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കുന്ന ഐഡന്റിഫൈ എന്ന മറ്റൊരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു ഇപ്പോൾ തിരിച്ചറിയൽ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഗ്രാഫിക് പോയിന്ററിന്റെ സ്ഥാനം കൈകാര്യം ചെയ്യുന്നു മൌസ് ബട്ടൺ അമർത്തുമ്പോൾ പോയിന്ററിന് ഏറ്റവും അടുത്തുള്ള പോയിന്റിനായി x ഉം y ഉം നൽകിയിരിക്കുന്ന കോർഡിനേറ്റുകൾ തിരയുന്നു ഇപ്പോൾ പോയിന്ററിന് അടുത്ത് പോയിന്റ് ആണെങ്കിൽ അതിന്റെ സൂചിക മൂല്യ കോഡിന്റെ ഭാഗമായി തിരികെ നൽകും ഇനി നമുക്ക് അതിനുള്ള വാക്യഘടന നോക്കാം തിരിച്ചറിയുക എന്നത് ഒരു ഫംഗ്ഷനും x ഉം y ഉം എന്റെ ഇൻപുട്ട് പാരാമീറ്ററുകളാണ് എന്റെ x y എന്നിവ എന്താണ് അവ സ്കാറ്റർ പ്ലോട്ടിലെ പോയിന്റുകളുടെ കോർഡിനേറ്റുകളാണ് ഇപ്പോൾ സൂചികകൾ തിരിച്ചറിയാൻ ഈ ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം എന്റെ ഇടതുവശത്ത് റെസിജ്വൽ പ്ലോട്ടിന് സമാനമായ കമാൻഡുകൾ എനിക്കുണ്ട് അതിനാൽ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടത് ഇതാണ് ഞാൻ ഇപ്പോൾ സൂചികകൾ തിരിച്ചറിയാൻ തിരിച്ചറിയൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഇതിനായുള്ള എന്റെ ഇൻപുട്ട് ബോണ്ട് മോഡലിന്റെ ഫിറ്റ് ചെയ്ത മൂല്യങ്ങളും സ്റ്റാൻഡേർഡ് റെസിജ്വലുകളും കാരണമാണ് ഞാൻ ഫിറ്റ് ചെയ്ത മൂല്യങ്ങൾ നൽകുന്നു കാരണം പ്ലോട്ടിൽ സൂചികകൾ കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ പ്ലോട്ടിന് മോഡലിൽ നിന്നുള്ള മൂല്യങ്ങളും മോഡലിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് റെസിജ്വലുകളും ഫിറ്റ് ചെയ്തിരിക്കുന്നു അതിനാൽ ഈ പ്ലോട്ടിൽ എന്റെ സൂചികകൾ തിരിച്ചറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഐഡന്റിഡ് ഫംഗ്ഷനുള്ള പ്ലോട്ട് കമാൻഡിനായി ഞാൻ ഉപയോഗിച്ച അതേ ഇൻപുട്ടുകൾ ഞാൻ നൽകുന്നു അതിനാൽ ഇവിടെ വീണ്ടും ഞാൻ ബോണ്ട് മോഡലിൽ നിന്ന് മൂല്യങ്ങൾ ഫിറ്റ് ചെയ്തതായും y പാരാമീറ്ററിനായി ഞാൻ പ്ലോട്ട് ചെയ്യുന്നതായും നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ സ്റ്റാൻഡേർഡ് റെസിജ്വലുകൾ പ്ലോട്ട് ചെയ്യുന്നു ഇപ്പോൾ ഒരിക്കൽ നിങ്ങൾ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉടനടി ഔട്ട്പുട്ട് ലഭിക്കില്ല ഇടതുവശത്ത് ഇനിപ്പറയുന്ന സ്നിപ്പറ്റ് പ്രദർശിപ്പിക്കും നിങ്ങൾ ഒരു ഫിനിഷ് ബട്ടൺ കാണുകയും ഒരു സന്ദേശം പ്രദർശിപ്പിക്കുന്നത് കാണുകയും ചെയ്യും ഇപ്പോൾ ഈ പ്ലോട്ടിൽ നമ്മൾ ഓരോ പോയിന്റും ക്ലിക്ക് ചെയ്ത് തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനാൽ തിരിച്ചറിയാൻ നമ്മൾ ഫിറ്റ് ചെയ്ത മൂല്യങ്ങളും സ്റ്റാൻഡേർഡ് റെസിജ്വലുകളും ഉപയോഗിക്കുന്നു എന്ന വസ്തുത നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് മുകളിലുള്ള കമാൻഡ് ഞാൻ പ്രദർശിപ്പിക്കുന്നു ഇപ്പോൾ ഒരു പോയിന്റിന് സമീപം ക്ലിക്ക് ചെയ്യുക അത് തിരിച്ചറിഞ്ഞ പോയിന്റുകളുടെ പട്ടികയിലേക്ക് ചേർക്കുക ഇപ്പോൾ ഞാൻ ഈ പോയിന്റിന് സമീപം ക്ലിക്ക് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഇത് ഈ പോയിന്റ് തിരിച്ചറിഞ്ഞ് സംഭരിക്കാൻ പോകുന്നു ഇപ്പോൾ ഈ പോയിന്റുകളെല്ലാം ഒരിക്കൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ ഇപ്പോൾ ഒരു പോയിന്റ് ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിന് സമീപം ക്ലിക്കുചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിപ്പറയുന്ന സന്ദേശം ലഭിക്കും ഇത് ഒരു മുന്നറിയിപ്പായിരിക്കും അത് ഇതിനകം തിരിച്ചറിഞ്ഞ ഏറ്റവും അടുത്തുള്ള പോയിന്റായി വായിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും പോയിന്റുകൾക്ക് സമീപം ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ 0 25 ഇഞ്ചിനുള്ളിൽ ഒരു പോയിന്റും തിരിച്ചറിയാൻ കഴിയില്ല എന്ന സന്ദേശം പ്രദർശിപ്പിക്കും അതിനാൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എനിക്ക് അതിനോട് ഏറ്റവും അടുത്ത പോയിന്റുകളൊന്നുമില്ല അതിനാൽ 0 25 ഇഞ്ചിനുള്ളിൽ പോയിന്റ് ഇല്ല എന്ന സന്ദേശം ഇത് പ്രദർശിപ്പിക്കും ഇപ്പോൾ നിങ്ങൾ എല്ലാ ഔട്ട്ലയറുകളും തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ ഗ്രാഫിക്കൽ വിൻഡോയുടെ മുകളിൽ വലത് കോണിലുള്ള ഫിനിഷ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്കുചെയ്യേണ്ടതുണ്ട് പൂർത്തിയാക്കാൻ എസ്കേപ്പ് അമർത്തുക ഇപ്പോൾ അവസാനിപ്പിച്ചതിന് ശേഷം സൂചികകൾ കൺസോളിലും പ്ലോട്ടിലും പ്രദർശിപ്പിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കൺസോളിൽ കാണാൻ കഴിയും എന്റെ സൂചികകൾ 4 13 34 35 ആയി കാണിക്കുന്നു എന്നാൽ ഇത് നിങ്ങൾക്ക് മൂല്യം മാത്രമേ തരൂ നിങ്ങളുടെ ഔട്ലയർ പ്ലോട്ടിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ ഞാൻ പ്ലോട്ടിലേക്ക് നോക്കാൻ പോകുന്നു സാമ്പിളിന്റെ 13 ാമത്തെ പോയിന്റ് ഏറ്റവും അകലെയാണെന്ന് എനിക്കറിയാം അത് ഇവിടെയുണ്ട് തുടർന്ന് 35 ാമത്തെ സാമ്പിൾ തുടർന്ന് സാമ്പിൾ 4 തുടർന്ന് എനിക്ക് ഒരു സാമ്പിൾ കൂടിയുണ്ട് അത് ഇവിടെയുണ്ട് അത് 34 ാമത്തെ സാമ്പിളാണ് ഈ ഔട്ട്ലറുകൾ തിരിച്ചറിഞ്ഞ ശേഷം നമ്മൾ ഒരെണ്ണം നീക്കം ചെയ്തുകൊണ്ട് ആരംഭിക്കാൻ പോകുന്നു നമ്മൾ ഒരു പുതിയ മോഡൽ നിർമ്മിക്കാൻ പോകുന്നു അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഞാൻ ഒരു സമയം ഒരു പോയിന്റ് നീക്കം ചെയ്തുകൊണ്ട് ആരംഭിക്കും ഞാൻ നീക്കം ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പോയിന്റ് സാമ്പിൾ 13 ആണ് അത് 13 ാമത്തെ പോയിന്റാണ് കാരണം ഇത് പ്ലോട്ടിലെ ഏറ്റവും ദൂരെയാണ് അതിനാൽ ആരംഭിക്കുന്നതിന് ഞാൻ പുതിയ ബോണ്ടുകൾ എന്ന് വിളിക്കുന്ന ഒരു പുതിയ ഡാറ്റ ഫ്രെയിം സൃഷ്ടിക്കാൻ പോകുന്നു അതിൽ 13 ാമത്തെ വരി ഒഴികെയുള്ള എല്ലാ ബോണ്ടുകളും ഉണ്ടായിരിക്കും പുതിയ ഡാറ്റയ്ക്കായി നിർമ്മിക്കുന്ന ലീനിയർ മോഡലായ ബോണ്ട് മോഡ് വൺ എന്ന മറ്റൊരു ഒബ്ജക്റ്റ് ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു അതിനാൽ അതേ ഡാറ്റാ സെറ്റിൽ നിന്നുള്ള കൂപ്പൺ നിരക്കുള്ള പുതിയ ഡാറ്റ ഫ്രെയിം ബോണ്ടുകളിൽ നിന്നുള്ള ബിഡ് വില ഞാൻ തിരിച്ചുപിടിക്കാൻ പോകുന്നു ഇപ്പോൾ പതിമൂന്നാം പോയിന്റ് അടങ്ങിയിട്ടില്ലാത്ത പുതിയ ലീനിയർ മോഡൽ നിർമ്മിച്ച ശേഷം അത് ഒരു ഔട്ട്ലൈയറാണ് റെസിജ്വൽ പ്ലോട്ടിലുള്ള അതേ പ്രക്രിയ നമ്മൾ വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു പുതിയ ഡാറ്റയ്ക്കുള്ള ഔട്ട്ലയറുകളെ നമ്മൾ തിരിച്ചറിയാൻ പോകുന്നു എന്റെ വലതുവശത്ത് പുറത്തുള്ളവയെ തിരിച്ചറിഞ്ഞ് റെസിജ്വൽ പ്ലോട്ട് എന്റെ പക്കലുണ്ട് അതിനാൽ സ്നിപ്പെറ്റിൽ നിന്ന് പുതിയ ഡാറ്റയ്ക്കായി എന്റെ നാലാമത്തെ പോയിന്റ് 33 ആം പോയിന്റ് 34 ആം പോയിന്റ് എന്നിവ ഔട്ട്ലയറുകളായി തിരിച്ചറിയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ പുതിയ ഡാറ്റയിൽ 34 ഡാറ്റ നിരീക്ഷണങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ കാരണം നമ്മൾ ഇതിനകം ഒരു നിരീക്ഷണം നീക്കം ചെയ്തിട്ടുണ്ട് അതിനാൽ പുതിയ ഡാറ്റയ്ക്കുള്ള സൂചികകൾ മാറും ഈ ഡാറ്റയിലെ ഏറ്റവും ദൂരെയുള്ള പോയിന്റ് 34 ാമത്തെ പോയിന്റാണ് അതിനുശേഷം എനിക്ക് 4 ആം പോയിന്റുണ്ട് അതിനെ തുടർന്ന് ഈ പുതിയ ഡാറ്റയ്ക്കായി ലൈനിൽ ഒരു പോയിന്റും ഉണ്ട് അത് 33 ആം പോയിന്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ പ്ലോട്ടും മുമ്പത്തെ പ്ലോട്ടും താരതമ്യം ചെയ്താൽ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ പോയിന്റ് ഈ ലൈനിന് താഴെയായിരുന്നുവെന്നും മുമ്പത്തെ കേസിൽ നമ്മൾക്ക് അങ്ങേയറ്റം ഔട്ട്ലൈയർ ഉണ്ടായിരുന്നതിനാലും അത് റെസിജ്വൽ പോയിന്റുകളിൽ സ്മിയറിങ് ഇഫക്റ്റ് ഉണ്ടാക്കിയതായി നമുക്ക് കാണാൻ കഴിയും ഈ പുതിയ ലീനിയർ മോഡൽ നിർമ്മിച്ച ശേഷം നമുക്ക് സമ്മറി നോക്കാം ഇടതുവശത്ത് എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളുന്ന പഴയ മോഡൽ ബോണ്ട്സ്മോഡിന്റെ സമ്മറിയാണ് വലതുവശത്ത് പുതിയ മോഡലിന്റെ സമ്മറി എനിക്കുണ്ട് അതിൽ 13 ാമത്തെ സാമ്പിൾ അടങ്ങിയിട്ടില്ല അതിനാൽ രണ്ട് മോഡലുകളുടെയും R സ്ക്വയർ മൂല്യങ്ങളിൽ നിന്ന് ഒരു എക്സ്ട്രീം പോയിന്റ് നീക്കം ചെയ്താൽ ഗുരുതരമായ മാറ്റമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും 0 17516 ൽ നിന്ന് R സ്ക്വയർ 0 8077 ആയി മെച്ചപ്പെടുന്നു ഇത് തികച്ചും ഗുരുതരമായ മാറ്റമാണ് ഇനി നമുക്ക് മറ്റെല്ലാ പോയിന്റുകളും ഓരോന്നായി നീക്കം ചെയ്ത് R സ്ക്വയർ മൂല്യം എങ്ങനെ മാറുന്നുവെന്ന് നോക്കാം ഞാൻ ബാക്കിയുള്ള പോയിന്റുകൾ ഓരോന്നായി നീക്കം ചെയ്യുന്നു നേരത്തെ ഞാൻ 13 ാം പോയിന്റ് നീക്കം ചെയ്തുകൊണ്ട് ആരംഭിച്ചു ഇപ്പോൾ ഞാൻ 35 ാമത്തേത് നീക്കം ചെയ്യാൻ പോകുന്നു 35 ാമത്തെ പോയിന്റ് നീക്കം ചെയ്തതിന് ശേഷം സ്ക്വയർ മൂല്യം എന്താണെന്ന് നമുക്ക് നോക്കാം R സ്ക്വയർ 0 80 ൽ നിന്ന് 0 88 ആയി മാറുന്നു അതിനാൽ ഇവിടെയും വളരെ വലിയ കുതിച്ചുചാട്ടമുണ്ട് അതിനാൽ 35 ാമത്തെ പോയിന്റ് നീക്കം ചെയ്തതിന് ശേഷം എനിക്ക് R സ്ക്വയർ മൂല്യത്തിൽ നല്ലൊരു മാറ്റം കാണാൻ കഴിയും ഇനി നാലാമത്തെ പോയിന്റ് നീക്കം ചെയ്താൽ R സ്ക്വയർ മൂല്യം എന്താണെന്ന് നോക്കാം R സ്ക്വയർ മൂല്യം 0 88 ൽ നിന്ന് 0 98 ആയി മെച്ചപ്പെടുന്നു അതും നല്ല കുതിപ്പാണ് അതിനാൽ ഇപ്പോൾ ഈ സൂചികകൾ പഴയ ഡാറ്റയ്ക്കുള്ളതാണ് എനിക്ക് നീക്കം ചെയ്യാൻ ഒരു സൂചിക കൂടിയുണ്ട് അത് സൂചിക 34 ആണ് ഇത് നീക്കം ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഞാൻ 34 ാമത്തെ പോയിന്റ് നീക്കം ചെയ്തതിന് ശേഷം എന്റെ R സ്ക്വയർ ചെറുതായി വർദ്ധിക്കുന്നു അതും 3 ആം ദശാംശസ്ഥാനത്ത് നിന്ന് 9852 ൽ നിന്ന് അത് 0 9891 ആയി വർദ്ധിക്കുന്നു അതിനാൽ വ്യത്യാസം വളരെ വലുതല്ല ഈ പോയിന്റ് സ്വയം ഒരു ഔട്ട്ലിയർ ആയി കണക്കാക്കേണ്ടതില്ല കാരണം ഇത് മോഡലിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നില്ല അതിനാൽ ഇപ്പോൾ ഈ നാല് പോയിന്റുകളും നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഡാറ്റയ്ക്ക് മുകളിലൂടെ പുതിയ റിഗ്രഷൻ ലൈൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നു ഇടതുവശത്ത് ഞാൻ അടിസ്ഥാനപരമായി 4 സൂചിക 4 13 34 ഉം 35 ഉം നീക്കം ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ പോയിന്റുകൾ ഞാൻ എന്റെ ഡാറ്റയിൽ നിന്ന് നീക്കം ചെയ്തു അതുപോലെ ബിഡ് വിലയ്ക്കും ഞാൻ ഈ പോയിന്റുകൾ നീക്കം ചെയ്തു ഞാൻ പുതിയ t മോഡലിലേക്ക് പോകുന്നു ബോണ്ട്സ്മോഡിന് ഇപ്പോൾ ഔട്ട്ലയറുകളൊന്നുമില്ല കൂടാതെ ഞാൻ ഡാറ്റയ്ക്ക് മുകളിലൂടെ റിഗ്രഷൻ ലൈൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നു അതിനാൽ ഗ്രഷൻ ലൈൻ ഡാറ്റയുമായി നന്നായി യോജിക്കുന്നു ചില പോയിന്റുകൾ ഉണ്ട് അവ ശരിക്കും അകലെയാണ് പക്ഷേ അത് സ്ലോപ്പിന്റെ സ്വഭാവത്തെ കാര്യമായി മാറ്റില്ല അതിനാൽ ഇതൊരു നല്ല മാതൃകയാണ് റിഗ്രഷൻ ലൈനിനെ സ്വാധീനിക്കുന്നുവെന്ന് നമ്മൾ കരുതിയ എല്ലാ സാധ്യതകളും നമ്മൾ നീക്കംചെയ്തു ഈ മൂന്ന് ലെക്ച്ചറുകളിൽ സംഗ്രഹിക്കാൻ ഒരു ലളിതമായ ലീനിയർ റിഗ്രഷൻ മോഡൽ നിർമ്മിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ നമ്മൾ നോക്കി ഈ മോഡലുകൾക്കായി സമ്മറിയിൽ നിന്നുള്ള ഫലങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് നമ്മൾ കണ്ടു നമ്മൾ റെസിജ്വൽ അനാലിസിസ് നോക്കി പുറത്തുള്ളവ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മൾ നോക്കി മോഡലിലെ സിഗ്നിഫിക്കന്റ് കോയിഫിഷ്യന്റ്കളെ എങ്ങനെ തിരിച്ചറിയാമെന്നും നമ്മളുടെ മോഡൽ എത്ര മികച്ചതാണെന്നും നമ്മൾ കണ്ടു നിലവിലുള്ള മോഡലുകളുടെ പരിഷ്ക്കരണത്തിനായി പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയും നമ്മൾ കണ്ടു തുടർന്ന് നമ്മൾ ഔട്ട്ലയറുകളില്ലാതെ ഒരു പരിഷ്കൃത മോഡൽ നിർമ്മിച്ചു